അതിനാൽ ഇതാണ് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രം കൂടാതെ C1 C2 C3 എന്നിവ സിഗ്നൽ ആവൃത്തികളിൽ ഷോർട്ട് ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നമ്മൾ അത് എങ്ങനെ ചെയ്യും മുമ്പത്തെപ്പോലെ നമ്മൾ ഓരോന്നായി ചെയ്യുന്നു മൂന്ന് കപ്പാസിറ്ററുകളും ഉൾപ്പെടെ Vi Vo എന്നിവയ്ക്കിടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല മാത്രമല്ല ഇത് ചെയ്യുന്നത് പ്രയോജനകരമല്ല കാരണം നമ്മൾ എന്താണ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പരിമിതിയെക്കാൾ വലിയ കപ്പാസിറ്ററുകളെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ C1 ന്റെ പരിമിതികൾ വിലയിരുത്തുമ്പോൾ C2 C3 എന്നിവ ഷോർട്ട് സർക്യൂട്ടുകളാണെന്നും മറ്റും നമ്മൾ അനുമാനിക്കുന്നു കപ്പാസിറ്ററിലുടനീളം ദൃശ്യമാകുന്ന പ്രതിരോധം കണ്ടെത്തുകയും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആ പ്രതിരോധത്തിനെക്കാൾ വളരെ ചെറുതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പതിവ് രീതി നമ്മൾ ഇൻപുട്ട് നിർജ്ജീവമാക്കുന്നു Vi പൂജ്യത്തിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ C1 വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ ലൂപ്പ് ഉണ്ട് Vi പൂജ്യമാണ് അതിനാൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് C1 ൽ ഉടനീളം ദൃശ്യമാകുന്നത് Rs R1 || R2 അതിനാൽ കപ്പാസിറ്റർ C1 ന്റെ റിയാക്ടൻസ് അതിലുള്ള റെസിസ്റ്റൻസിനെക്കാൾ വളരെ ചെറുതായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് Rs R1 || R2 വീണ്ടും നമ്മൾ ഇൻപുട്ട് സോഴ്സ് നിർജ്ജീവമാക്കുമ്പോൾ ഈ കറന്റ് സോഴ്സ് കുറയുന്നു നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാൻ കഴിയും അത് കുറയുന്നു അത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറും കാരണം ഇത് പൂജ്യമാണ് ഈ ലൂപ്പിൽ നോക്കിയാൽ ഈ ഭാഗം ഓപ്പൺ സർക്യൂട്ട് ചെയ്തതാണ് നമുക്ക് അതിൽ C2 RD RL എന്നിവയുണ്ട് അതിനാൽ റിയാക്ടൻസ് C2 1ωC2 RD RL നേക്കാൾ വളരെ ചെറുതായിരിക്കണം ഞാൻ ഇപ്പോൾ ഇത് പല തവണ ആവർത്തിച്ചിട്ടുണ്ട് ഈ അവസ്ഥ ഇവിടെ ഉറപ്പാക്കുന്നത് C2 ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചാലും ഔട്ട്പുട്ട് വോൾട്ടേജ് Vo ന് തുല്യമാണെന്നതാണ് RD വളരെ വലുതാകുമ്പോൾ പ്രസക്തമായ മറ്റൊരു അവസ്ഥ നമുക്ക് മുമ്പുള്ളതുപോലെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അതായത് ഇവിടത്തെ ഡ്രെയിനിലെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന് തുല്യമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണം ശക്തവും1ωC2 RL നേക്കാൾ വളരെ ചെറുതുമായിരിക്കണം വീണ്ടും നിങ്ങൾ ഇതിനകം കണ്ട കാര്യങ്ങളാണ് അതിനാൽ ഞാൻ ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഈ കപ്പാസിറ്റർ C3 അവശേഷിക്കുന്നു അതിനുള്ള നിയന്ത്രണം എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം C2 C1 എന്നിവ യഥാർത്ഥത്തിൽ ഷോർട്ട് ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനർത്ഥം അവ വേണ്ടത്ര വലുതായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ അവ സിഗ്നൽ ആവൃത്തിയിൽ ഷോർട്ട്സാണ് എന്നാൽ തീർച്ചയായും ഇങ്ങനെ അനുമാനിക്കുമ്പോൾ Vi പൂജ്യമായി സജ്ജമാക്കുന്നു അതിനാൽ ഇതും ഒരു ഷോർട്ട് ആണ് ഇപ്പോൾ C3 കണക്റ്റുചെയ്തിരിക്കുന്നിടത്ത് C3 ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ C3 ന്റെ റിയാക്ടൻസ് ദൃശ്യമാകുന്ന റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അതിനു കാരണം ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിലുള്ള സർക്യൂട്ടിന്റെ ബാക്കി ഭാഗം ആണ് അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഈ പോയിന്റും ഗ്രൌണ്ടും തമ്മിലുള്ള റെസിസ്റ്റൻസ് കണ്ടെത്തുക എന്നതാണ് അത് വളരെ എളുപ്പമാണ് ഞാൻ ഒരു ടെസ്റ്റ് വോൾട്ടേജ് VTEST പ്രയോഗിക്കുന്നു അവിടെ ഒഴുകുന്ന വൈദ്യുതധാരയെ വിലയിരുത്തുക അതിനെ ഞാൻ ITEST എന്ന് വിളിക്കും VTEST ബൈ ITEST എനിക്ക് റെസിസ്റ്റൻസ് നൽകുന്നു ഇപ്പോൾ ഒന്നാമതായി ഗേറ്റ് വോൾട്ടേജ് പൂജ്യമാണ് കാരണം ഇത് പൂജ്യവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഷോർട്ട് ആണ് നിങ്ങൾക്ക് Rs R1 || R2 ഉണ്ട് അതിനാൽ നിങ്ങൾ ഈ സർക്യൂട്ടിന്റെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് Rs R1 || R2 കിട്ടും ഗേറ്റ് വോൾട്ടേജ് പൂജ്യമാണെങ്കിൽ അതിനാൽ ഇത് പൂജ്യം വോൾട്ട് ആണ് എവിടെയും കറന്റ് ഒഴുകുന്നില്ല അതിനാൽ ഇപ്പോൾ ഇതിലെ VGS VG VS ആണ് VS VTEST അല്ലാതെ മറ്റൊന്നുമല്ല VTEST സോഴ്സ് വോൾട്ടേജ് ആണ് അതിനാൽ VGS VTEST ന് തുല്യമാണ് ഇത് 0 VTEST ആണ് കറന്റ് ITEST എന്താണ് അത് ഈ വൈദ്യുതധാരയുടെ നെഗറ്റീവിന് തുല്യമാണ് ഈ gm ഗുണം VGS താഴേക്ക് പ്രവഹിക്കുന്നു ITEST അതിന് വിപരീതമാണ് അതിനാൽ ITEST gmVGS ആണ് VGS തന്നെ VTEST ആണ് അതിനാൽ നമുക്ക് gm VTEST ലഭിക്കും VTEST ബൈ ITEST 1 gm ആണ് അതിനാൽ കപ്പാസിറ്റർ ബന്ധിപ്പിച്ച ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് 1 gm ആണ് കപ്പാസിറ്റർ C3 യുടെ റിയാക്ടൻസ് 1 gm എന്നതിനേക്കാൾ വളരെ ചെറുതായിരിക്കണം ഓർമിക്കുക ഈ ഡ്രെയിൻ ഫീഡ്ബാക്ക് ഘടന ഉണ്ടായിരുന്നപ്പോൾ ഗേറ്റ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് തുല്യമായ രണ്ട് ടെർമിനൽ ഘടകത്തിന്റെ സ്മാൾ സിഗ്നൽ റെസിസ്റ്റൻസ് 1 gm ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് സമാനമായ ഒരു ഫലമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഉറവിടം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 gm ലഭിക്കും അതിനാൽ ഇത് സ്വയം വിശകലനം ചെയ്ത് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് 1 gm ആണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക അത് കപ്പാസിറ്റർ C3 യ്ക്കുള്ള നിയന്ത്രണം നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ ഈ വഴി നമുക്ക് എല്ലാ കപ്പാസിറ്റർ മൂല്യങ്ങളും കണ്ടെത്താനും സോഴ്സ് ആംപ്ലിഫയർ ശരിയായി രൂപകൽപ്പന ചെയ്യാനും കഴിയും